ഹലോ വെൽക്കം ബാക്ക് അതിനാൽ ഈ പ്രഭാഷണത്തിൽ വി ഐ ഫിസിക്കൽ ഡിസൈൻ ഓട്ടോമേഷന്റെ ചില ഘട്ടങ്ങൾ നമ്മൾ നോക്കും പിന്തുടരാനുള്ള മൊഡ്യൂളുകൾ നമ്മൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും അതിനാൽ ലെക്ചർ ടൈറ്റിൽ VLSI ഫിസിക്കൽ ഡിസൈൻ ഓട്ടോമേഷൻ ഭാഗം ഒന്ന് അതിനാൽ നിങ്ങൾ വി ഐ ഫിസിക്കൽ ഡിസൈൻ സൈക്കിളിലെ പ്രധാന ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ചിലത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ ഈ കോഴ്സിൽ ഞാൻ വിശദമായി ചർച്ച ചെയ്യുന്ന ഘട്ടങ്ങളാണ് ഇവ അതിനാൽ വിഎൽഎസ്ഐ ഫിസിക്കൽ ഡിസൈനിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ ആവർത്തിക്കുന്നു എന്റെ പക്കൽ ഇതിനകം ഒരു സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് ലഭ്യമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു സാധാരണയായി ഇത് ട്രാൻസിറ്റർ ലെവൽ നെറ്റ്ലിസ്റ്റാണ് ഇത് ഒരു ഗെറ്റ് ലെവൽ നെറ്റ്ലിസ്റ്റും ആകാം ഇത് സാധാരണ സെൽ ലൈബ്രറികളിലേക്ക് ടെക്നോളജി മാപ്പ് ചെയ്യാൻ കഴിയും അതിനാൽ അത്തരത്തിലുള്ള നെറ്റ്ലിസ്റ്റ് എനിക്ക് ഇതിനകം ലഭ്യമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു തുടർന്ന് അന്തിമ ലേ ഔട്ട് സൃഷ്ടിക്കുന്നതിന് ഞാൻ ഫിസിക്കൽ ഡിസൈൻ ഓട്ടോമേഷൻ സ്റ്റെപ്സിന്റെ ചില ശ്രേണികളിലൂടെ കടന്നുപോകുന്നു അതിനാൽ പ്രധാന ഘട്ടങ്ങൾ പാർട്ടീഷനിംഗും ഫ്ലോർ പ്ലാനിംഗും തുടർന്ന് പ്ലേസ്മെന്റും പിന്നെ റൂട്ടിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ തുടർന്ന് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് സിഗ്നൽ ഇന്റഗ്രിറ്റി ക്രോസ്റ്റാക്ക് പ്രശ്നങ്ങൾ ക്ലോക്ക് പവർ ടൈമിംഗ് ഡിസൈൻ ഒടുവിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചിപ്പിനുള്ള ഉപകരണത്തിന്റെ ആത്യന്തിക നിർമ്മാണത്തിനായി ഫാബ്രിക്കേഷൻ സൌകര്യത്തിലേക്ക് നമ്മുടെ ഫൈനൽ ഡിസൈൻ അയയ്ക്കാൻ തയ്യാറാകുമ്പോൾ ഡിസൈൻ സൈൻ ഓഫ് ചെയ്യുക അതിനാൽ ഫ്ലോർ പ്ലാനിങ്ങിന്റെ ആദ്യ ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഫ്ലോർ പ്ലാനിംഗ് എന്താണ് അർത്ഥമാക്കുന്നത് സിലിക്കൺ ഫ്ലോറിൽ നിരവധി സർക്യൂട്ട് ബ്ലോക്കുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഓരോ ബ്ലോക്കുകളുടെയും റഫ് പൊസിഷൻ നിർണ്ണയിക്കുക ഷേപ്പ്സ് നിർണ്ണയിക്കുക പിൻ ലൊക്കേഷൻസ് നിർണ്ണയിക്കുക ഞാൻ ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചതായി നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് നന്നായി വിലമതിക്കാൻ കഴിയുന്ന ഒരു ഉപമയെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ ആദ്യം മുതൽ ഒരു വീട് പണിയുന്നുവെന്ന് കരുതുക നിങ്ങൾ വാങ്ങുന്നത് മറ്റൊരാൾ നിർമ്മിച്ച ഫ്ലാറ്റ് അല്ല അതിനാൽ നിങ്ങൾക്ക് ഒരു ഫ്ലോർ ഏരിയയുണ്ട് നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ മുറികൾ സ്പെയ്സിംഗ് മുതലായവയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വന്തം ഡിസൈൻ സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വ്യത്യസ്ത ഘട്ടങ്ങൾ എന്താണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ ഒരു ഉപമ പറയട്ടെ അതിനാൽ ഫ്ലോർ പ്ലാനിംഗിൽ നിങ്ങൾക്ക് നിരവധി സർക്യൂട്ട് ബ്ലോക്കുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു 2 bhk വീട് ഒരു ഫ്ലോർ എന്ന് പറയാൻ പോവുകയാണെന്ന് കരുതുക ഇവിടെ നിങ്ങളുടെ ബ്ലോക്കുകൾ 2 ബെഡ്റൂമുകൾ നമുക്ക് 2 ടോയ്ലറ്റുകൾ 1 ഡ്രോയിംഗ് കം ഡൈനിംഗ് റൂം 1 അടുക്കള 1 ബാൽക്കണി ഇവയാണ് നിങ്ങളുടെ നിങ്ങൾ ശരിയായ സ്ഥലത്തു സ്ഥാപിക്കാനാഗ്രഹിക്കുന്ന ബ്ലോക്കുകൾ ഇപ്പോൾ ഈ ബ്ലോക്കുകളുടെ ഏകദേശ വലുപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് കാരണം നിങ്ങളുടെ 2 കിടപ്പുമുറികൾ എത്ര വലുതായിരിക്കണം ഡ്രോയിംഗ് റൂം എത്ര വലുതായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ കൃത്യമായ രൂപവും കോൺഫിഗറേഷനും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല മറ്റ് ബ്ലോക്കുകൾ ഉദാഹരണത്തിന് നിങ്ങൾ അവ സ്ഥാപിക്കുമ്പോൾ ഡ്രോയിംഗ് റൂം ഒരു ചതുരം പോലെയാകണം അത് ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള ഷേപ്പിലായിരിക്കണം ഞാൻ അത് ഷേപ്പിലാക്കണോ തുടങ്ങിയവ അതിനാൽ ഈ ഘട്ടത്തിൽ ഈ ബ്ലോക്കുകളുടെ കൃത്യമായ രൂപങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് വിഎൽഎസ്ഐ ഫ്ലോർ പ്ലാനിംഗിൽ പിൻ ലൊക്കേഷനുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് മാത്രമല്ല ഇവിടെ ഈ സാദൃശ്യത്തിൽ പിൻ ലൊക്കേഷൻ വാതിലുകളുടെയും ജനലുകളുടെയും കൃത്യമായ സ്ഥാനവുമായി പൊരുത്തപ്പെടും അതിനാൽ വ്യത്യസ്ത ബ്ലോക്കുകൾ ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമെങ്കിൽ വാതിലുകളും ജനലുകളും ഇടനാഴികളും സ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ 2 പ്രശ്നങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട് അതിനാൽ വിഎൽഎസ്ഐയിൽ നമ്മൾ സമാനമായ ഒരു കാര്യം നോക്കുന്നു എനിക്ക് വ്യത്യസ്ത ബ്ലോക്കുകളുണ്ട് എനിക്ക് സിലിക്കണിന്റെ ഒരു നിശ്ചിത വിസ്തീർണ്ണം ഉണ്ട് അവിടെ എല്ലാം സ്ഥാപിക്കേണ്ടതുണ്ട് ഇത് താൽക്കാലികമായി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇത് എവിടെ സ്ഥാപിക്കണം എന്ന് ശരിയാക്കുകയോ ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് വലുപ്പങ്ങൾ ക്രമീകരിക്കുക എനിക്ക് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ വിസ്തീർണ്ണം 10 യൂണിറ്റ് ബൈ 10 യൂണിറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ അതിന്റെ ലേ ഔട്ട് നിശ്ചയിച്ചിട്ടില്ല അതിനാൽ മൊത്തം വിസ്തീർണ്ണം 100 ചതുരശ്ര യൂണിറ്റാണെന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിൽ എനിക്ക് അവ പല തരത്തിൽ ക്രമീകരിക്കാൻ കഴിയും അതിനാൽ എനിക്ക് ഇത് ഇതുപോലെ കിടത്താൻ കഴിയും എനിക്ക് ഇത് 20 ൽ നിന്ന് 5 ലേക്കും എനിക്ക് 5 ൽ നിന്ന് 20 ലേക്കും എനിക്ക് 25 ൽ നിന്ന് 4 ലേക്കും ഇടാൻ കഴിയും അതിനാൽ എനിക്ക് ധാരാളം ഓപ്ഷനുകൾ ലഭ്യമാണ് അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് സമയത്ത് നിങ്ങൾ ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കുകയും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് മികച്ച തരത്തിലുള്ള പരിഹാരങ്ങൾ നൽകുന്നതെന്ന് കണ്ടെത്തുകയും വേണം ഇപ്പോൾ ഇത് തീർച്ചയായും ഫുൾ കസ്റ്റം ഡിസൈനിനുള്ള നിർബന്ധിത ഘട്ടമാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഡിസൈൻ ശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരുന്നു എല്ലാ സെല്ലുകളും വരികളായി സ്ഥാപിച്ചിട്ടുള്ള സെമി കസ്റ്റമേഴ്സിന്റെ സ്റ്റാൻഡേർഡ് സെൽ ബേസ് ഡിസൈനുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു അതിനാൽ ഇപ്പോൾ എന്റെ പ്ലെയ്സ്മെന്റ് പ്രശ്നം അനിയന്ത്രിതമല്ല എനിക്ക് എവിടെയും ഒന്നും സ്ഥാപിക്കാനാകില്ല ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സെൽ എനിക്ക് ഒരു വരിയിൽ മാത്രം സ്ഥാപിക്കണം അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് പ്രശ്നം സാധാരണ സെൽ ഡിസൈനുകളിൽ നിലവിലില്ല FPGA ഗേറ്റ് അറേയ്ക്ക് അത് നിലവിലില്ല FPGA ഫ്ലോർ പ്ലാനിംഗ് നിലവിലില്ലെങ്കിൽ CLB യുടെ ഒരേയൊരു പ്ലെയ്സ്മെന്റിൽ നിങ്ങൾ ഒരു സർക്യൂട്ട് മൊഡ്യൂൾ സ്ഥാപിക്കണം എന്നാൽ ഫ്ലോർ പ്ലാനിംഗ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതില്ല പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഫ്ലോർ പ്ലാനിംഗ് ഉപയോഗിക്കാം കാരണം ഡിലെയ്സ് ഇന്റർകണക്ഷൻ ഡിലെയ്സ് delays interconnection delays കുറവായതിനാൽ FPGA യുടെ ഒരു ഭാഗത്തേക്ക് ചില സർക്യൂട്ട് ഭാഗം അനുവദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനുള്ള വഴികളുണ്ട് FPGA സോഫ്റ്റ്വെയറുമായി ഇന്റർ കണക്റ്റ് ചെയ്യുക ചില ബ്ലോക്കുകൾ CLB കളിലേക്ക് മാപ്പ് ചെയ്തിരിക്കണം അവ നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമാക്കാൻ കഴിയുന്ന റേക്ടാങ്കുലർ റീജിയനിൽ സ്ഥിതിചെയ്യുന്നു ഇപ്പോൾ ഫ്ലോർ പ്ലാനിംഗിന് മുമ്പ് അല്ലെങ്കിൽ ഫ്ലോർ പ്ലാനിംഗിനൊപ്പം പാർട്ടീഷനിംഗ് എന്ന് വിളിക്കുന്ന മറ്റൊരു ഘട്ടമുണ്ട് പാർട്ടീഷനിംഗ് വിവിധ കാരണങ്ങളാൽ നടപ്പിലാക്കുന്നത് നിങ്ങൾ കാണുന്നു ഈ സ്ലൈഡ് വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് വളരെ വലിയ ഡിസൈൻ ഉണ്ടെന്ന് കരുതുക എനിക്ക് ഒരു ഉണ്ട് ഒരു ചിപ്പ് നിർമ്മിക്കാൻ കഴിയുന്ന പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉദാഹരണത്തിന് ഒരു ലക്ഷം ചിപ്പുകൾ ലഭിക്കാൻ എനിക്ക് കഴിവുണ്ട് പക്ഷേ എന്റെ രൂപകൽപ്പനയിൽ 2 5 ദശലക്ഷം ചിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ കാണുന്നു അതിനാൽ എനിക്കറിയാവുന്നത് എന്റെ ഡിസൈൻ 3 ചിപ്പുകളായി ബ്രേക്ക് ചെയ്യണം അതാണ് എനിക്ക് 1 ചിപ്പിൽ വേണ്ടത് അതിനാൽ എന്റെ മുഴുവൻ ഡിസൈനും 3 ആയി എങ്ങനെ വിഭജിക്കാം തീർച്ചയായും നിങ്ങൾക്ക് ഓരോ പാർട്ടീഷനുകളുടെയും വലുപ്പം 1 ദശലക്ഷത്തിൽ കുറവായിരിക്കും പാർട്ടീഷനുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ എണ്ണം കുറയ്ക്കണം എന്നതാണ് ഏറ്റവും അഭിലഷണീയമായ മറ്റൊരു കാര്യം കാരണം എനിക്ക് 2 ചിപ്പുകൾക്കിടയിൽ 1000 കണക്ഷനുകൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾ ചിപ്പ് പോകുമ്പോഴെല്ലാം ഡിലേ ഒരു ക്രമത്തിൽ വർദ്ധിക്കും അതിനാൽ മിക്ക ഇന്റർ കണക്ഷനുകളും ചിപ്പിനുള്ളിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചിപ്പുകൾക്കിടയിൽ കുറച്ച് കണക്ഷനുകൾ മാത്രമേ പോകൂ അതുപോലെ ഇവിടെ ഒരു ഗേറ്റ് ലെവൽ നെറ്റ്ലിസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഇവിടെയുണ്ട് അതിനാൽ 48 ഗേറ്റുകളുണ്ട് ഞാൻ അതിനെ 3 പാർട്ടീഷനുകളായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ചുവടെയുള്ള ഡയഗ്രം ഒരു നല്ല പാർട്ടീഷൻ കാണിക്കുന്നു അവിടെ നിങ്ങൾക്ക് 3 പാർട്ടീഷനുകൾ വ്യത്യസ്ത ഷേഡുകളിൽ കാണാം അവിടെ ഈ പാർട്ടീഷന്റെ വലുപ്പങ്ങൾ ഏകദേശം തുല്യമാണ് 15 16 17 എന്നിവ കൂടാതെ പാർട്ടീഷനുകൾക്കിടയിലുള്ള ഇന്റർകണക്ഷൻ വേർഡുകളുടെ എണ്ണവും ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടീഷനുകൾക്കിടയിലും 4 കണക്ഷനുകൾ ഉണ്ട് അതിനാൽ ഈ കട്ട് സൈസ് 4 ആണെന്ന് നമ്മൾ പറയുന്നു സമാനമായി രണ്ടാമത്തേതിനും മൂന്നാമതേതിനുo ഇടയിൽ 4 കണക്ഷനുകളുണ്ട് ഈ കട്ട് സൈസും 4 ആണ് ഒന്നിനും മൂന്നിനും ഇടയിൽ ഒന്നും ഇല്ല അതിനാൽ ഇതൊരു നല്ല വിഭജനമാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ വിഭജനം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചിപ്പുകളുടെ കാര്യത്തിൽ ഹൈ ലെവലിൽ ഞാൻ സംസാരിച്ച ഏത് ലെവലിലും ചെയ്യാൻ കഴിയും വാസ്തവത്തിൽ ഏത് ലെവലിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ സാധാരണയായി മിനി പ്ലേസ്മെന്റിനോ ഫ്ലോർ പ്ലാനിംഗിനോ പോകുന്നതിനുമുമ്പ് ഈ വിഭജനം ഒരു സുപ്രധാന ഘട്ടമാണ് ഇനി നമുക്ക് ഒരു ഫ്ലോർ പ്ലാനിംഗിലേക്ക് വരാം ഈ ഡയഗ്രാമിൽ ഒരു ഫ്ലോർ പ്ലാനിന്റെ പ്രാതിനിധ്യം ഫ്ലോർ പ്ലാൻ എങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ കാണിക്കുന്നു

ഇവിടെ ഇടതുവശത്തുള്ള ഡയഗ്രം പോലെ 1 2 3 4 5 6 7 8 ഇത് 5 മൊഡ്യൂളുകളെയോ ബ്ലോക്കുകളെയോ പ്രതിനിധീകരിക്കുന്നു അവിടെ ഏരിയാസ് ഏകദേശം വലുപ്പത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്ന റഫ് ഫ്ലോർ ആണിത് അതേസമയം വീടിന്റെ കാര്യത്തിൽ എനിക്ക് ഈ 4 എന്റെ ഡ്രോയിംഗ് റൂം ആയിരിക്കും ഈ 7 ഉം ഇത് 2 ഉം എന്റെ കിടപ്പുമുറികൾ ആയിരിക്കും ഇത് 1 എന്റെ അടുക്കള ആകാം ഇങ്ങനെ അതിനാൽ ഒരിക്കൽ എനിക്ക് ഇതുപോലൊരു ഫ്ലോർ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ പ്രതിനിധീകരിക്കും ഒരു സാധാരണ VLSI സർക്യൂട്ടിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ബ്ലോക്കുകൾ കൂടുതലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു അതിനാൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് അവ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ എനിക്ക് ചില മാനിപുലേഷൻസ് നടത്താൻ കഴിയും എനിക്ക് നല്ലതോ കാര്യക്ഷമമോ ആയ ഒരു ഫ്ലോർ പ്ലാനിൽ എത്തിച്ചേരാനാകും അതിനാൽ ഒരു മരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്ലോർ പ്ലാനിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള സാധ്യമായ ഒരു മാർഗ്ഗം നമ്മൾ ഇവിടെ കാണിക്കുന്നു ഈ മരം ഒരു കട്ടിനെ പ്രതിനിധീകരിക്കുന്നു നോഡുകൾ പ്ലസ് അല്ലെങ്കിൽ സ്റ്റാർ ആയി അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ലസ് എന്നാൽ ഒരു ഹൊറിസോണ്ടൽ കട്ട് എന്നാണ് സ്റ്റാർ ഒരു വെർട്ടിക്കൽ കട്ട് എന്ന് അർത്ഥമാക്കുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ടെന്ന് കരുതുക അവിടെ എനിക്ക് 2 ബ്ലോക്കുകൾ A B എന്നിവ ഒരു വെർട്ടിക്കൽ പാർട്ടീഷൻ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഞാൻ ഇനിപ്പറയുന്ന രീതിയിൽ പ്രതിനിധീകരിക്കുന്നു അതുപോലെ ഹൊറിസോണ്ടൽ പാർട്ടീഷനുകളാൽ സി ഡി പ്രതിനിധീകരിക്കുന്നു എന്ന് 2 ബ്ലോക്കുകൾ പറയുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ അതിനെ ഇതുപോലെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് മറ്റൊരു ഉദാഹരണം ചെറുതായി സംയോജിപ്പിക്കാം എനിക്ക് ഇത് ഉണ്ടെന്ന് പറയട്ടെ അതിനാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന രീതി ആദ്യം ഞാൻ ഈ വെർട്ടിക്കൽ കട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് അതിനാൽ സ്റ്റാർ ഒരു വശം എ ആണ് മറുവശം ഇതുമുഴുവനുമാണ് ഈ മുഴുവൻ കാര്യങ്ങൾക്കും വീണ്ടും ഒരു ഹൊറിസോണ്ടൽ കട്ട് ഉണ്ട് അതിനാൽ പ്ലസ് ബി സി അതിനാൽ ഇത് ഒരു ഫ്ലോർ പ്ലാനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ ഉദാഹരണത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം ഈ ഉദാഹരണത്തിൽ ഇത് സാധ്യമായ ഒരു ട്രീ റെപ്രെസെന്റഷൻ ആണ് കാരണം ഇത് താഴത്തെ നിലയിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ യൂണിക് അല്ല 3 6 എന്നിവ ഒരു വെർട്ടിക്കൽ ലൈനിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈനിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ 3 6 3 6 ഒരുമിച്ച് ഒരു ഹൊറിസോണ്ടൽ ലൈനിലൂടെ 1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ വീണ്ടും ഒരു പ്ലസ് 3 6 ഉം 1 ഉം 2 5 ഒരു വെർട്ടിക്കൽ ലൈനിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു 2 സ്റ്റാർ 5 പിന്നെ ഇതും 4 ഉം പ്ലസ് 4 ഉപയോഗിച്ച് ഒരു ഹൊറിസോണ്ടൽ ലൈനിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ മുഴുവൻ കാര്യവും ഈ മുഴുവൻ കാര്യവും ഒരു വെർട്ടിക്കൽ ലൈനിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ വീണ്ടും ഒരു സ്റ്റാർ ഇതും മറുവശം 8 ഉം 7 ഉം ഹൊറിസോണ്ടൽ ലൈനാണ് ഇത് വീണ്ടും വെർട്ടിക്കൽ ലൈൻ ഇപ്പോൾ ഇത് ഒരു വൃക്ഷമാണ് ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രെസെന്റഷൻ ആണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റാ സ്ട്രക്ച്ചർ പഠിച്ചവർക്ക് ഇത് വെർട്ടെക്സ് നോഡുകളിൽ ചില ഓപ്പറേറ്റർമാർ ഉള്ള ബൈനറി ട്രീ അത്തരം ഏതെങ്കിലും വൃക്ഷമാണെന്ന് അറിയാം ഈ കേസിലെ ചില മൊഡ്യൂളുകൾ ലീവ് നോഡുകളിൽ പോളിഷ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഇത് റെപ്രെസെന്റ് ചെയ്യാം പോളിഷ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്താണ് നിങ്ങൾ ഇത് ഒരു A B യും സ്റ്റാറും കാണുകയാണെങ്കിൽ ഇത് ഞാൻ ആദ്യം പ്രതിനിധീകരിക്കുന്നത് 2 ലീവ് നോഡുകൾ തുടർന്ന് ഓപ്പറേറ്റർ ഞാൻ ഇത് ഇങ്ങനെ എഴുതുന്നു A B സ്റ്റാർ ഇത് ഞാൻ C D പ്ലസ് ആയി എഴുതുന്നു ഇത് ഞാൻ എഴുതുന്നത് ആദ്യം ഈ 1 പോകും ബിസി പ്ലസ് ഞാൻ ആദ്യം ഇത് പിന്നീട് എ ഇത് പിന്നെ ഈ മുഴുവൻ കാര്യവും സ്റ്റാർ ഇങ്ങനെയാണ് പോളിഷ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനുകൾ എഴുതുന്നത് ഇതാണ് തനതായ നൊട്ടേഷൻ ഇതിന് ഒരു പേരെന്തെസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റുകൾ ആവശ്യമില്ല അതിനാൽ ഏതൊരു ഓപ്പറേറ്ററും നോക്കിയാൽ മുമ്പത്തെ 2 ഓപെറാൻഡ്സ് പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ പ്ലസ് ബിയിലും സിയിലും പ്രവർത്തിക്കും എയിലും ഇതിലും സ്റ്റാർ പ്രവർത്തിക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ പടിപടിയായി നിങ്ങൾക്ക് ശരിയായി പോകാം അതിനാൽ ഇവിടെ നിങ്ങൾക്കും ഇത് കാണാം ഞങ്ങൾ കൃത്യമായി ഒരേ കാര്യം ചെയ്തിട്ടുണ്ട് 3 6 പ്ലസ് എന്നാൽ ഇത് ഒരു 3 6 പ്ലസ് 1 പ്ലസ് അതായത് 3 6 പ്ലസ് 1 പ്ലസ് 3 6 പ്ലസ് 1 പ്ലസ് 2 5 സ്റ്റാർ 2 5 സ്റ്റാർ ഇതാണ് പിന്നെ 4 കൊണ്ട് പ്ലസ് 4 ആണ് ഈ മുഴുവൻ കാര്യവും ഈ മുഴുവൻ കാര്യവും ഒരു സ്റ്റാറും ഉണ്ട് 8 7 പ്ലസ് 8 7 പ്ലസ് ഈ മുഴുവൻ കാര്യവും ഈ 8 7 പ്ലസ് സ്റ്റാറുമാണ് അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാൻ കഴിയും ഇതിനെ യഥാർത്ഥത്തിൽ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ഫ്ലോർ പ്ലാനിനെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനായി പ്രതിനിധീകരിക്കാം അത് സ്ലൈസ് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരികളായി സ്ലൈസ് ചെയ്യാം എന്നാൽ നിങ്ങൾ പിന്നീട് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഈ നൊട്ടേഷനിൽ പ്രതിനിധീകരിക്കാൻ കഴിയാത്ത ചില ഫ്ലോർ പ്ലാനുകൾ ഉണ്ടെന്ന് ഞാൻ കാണും 5 ബ്ലോക്കുകൾ A B C D E ഉണ്ടെന്ന് കരുതുക എന്നാൽ ഈ ഫ്ലോർ പ്ലാൻ മുറിക്കാൻ കഴിയുന്ന ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയ ലൈനുകൾ തുടരുന്നില്ല അതിനാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സ്റ്റാർ ഉപയോഗിക്കാൻ കഴിയില്ല ഇത് അങ്ങനെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല അതിനാൽ ഇത്തരത്തിലുള്ള ഫ്ലോർ പ്ലാനുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് കാണാം അതിനാൽ ഫ്ലോർ പ്ലാനിംഗിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നു ഫ്ലോർ പ്ലാനിംഗ് സമയത്ത് കാണുക ബ്ലോക്കുകളുടെ ഏകദേശ സ്ഥാനങ്ങൾ നമ്മൾ ഇതിനകം നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ഫ്ലാറ്റിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും പറഞ്ഞതുപോലെ ഇവിടെ എന്റെ ആദ്യത്തെ മുറി ഈ രണ്ടാമത്തെ മുറി ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഡൈനിംഗ് സ്പേസ് തുടങ്ങിയവ ഞാൻ താൽക്കാലികമായി ലൊക്കേഷനുകൾ ശരിയാക്കിയിട്ടുണ്ട് എന്നാൽ അടുത്ത ചോദ്യം ആളുകൾ ഈ മുറിയിൽ നിന്ന് ആ മുറിയിലേക്ക് എങ്ങനെ നീങ്ങുന്നു എന്നതാണ് അതിനാൽ അതിനായി എനിക്ക് ജോലി ചെയ്യാനും അവരുടെ സമീപനത്തിലെത്താനും ചില അധിക ഇടനാഴികൾ ആവശ്യമായി വരും അതിനാൽ വിഎൽഎസ്ഐ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് അധിക ഇടം ആവശ്യമാണ് അതിലൂടെ എനിക്ക് റൂട്ടിംഗ് ഏരിയകൾ എന്ന് വിളിക്കപ്പെടുന്ന ബ്ലോക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ പ്ലെയ്സ്മെന്റ് പ്രശ്നം പറയുന്നത് നിർവചിക്കപ്പെട്ട ആകൃതികളും പിൻ ലൊക്കേഷനുകളുമുള്ള ഒരു കൂട്ടം ബ്ലോക്കുകൾ നൽകി ലേ ഔട്ടുകളുടെ സ്ഥാനം നിർണ്ണയിക്കുക ഇന്റർകണക്ഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് നിങ്ങൾ ബ്ലോക്കുകൾക്കിടയിൽ മതിയായ ഇടം നിലനിർത്തുക മാത്രമല്ല അതിനാൽ ഇവിടെ ഇന്റർകണക്ഷൻ മോഡലിംഗും കോസ്റ് എസ്റ്റിമേറ്റുകളും പ്രധാനമാണ് കാരണം സംശയാസ്പദമായ സമയത്ത് നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട കൃത്യമായ കണക്ഷൻ നിങ്ങൾ കാണുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇടം നിലനിർത്താൻ ശ്രമിക്കുന്നു കൂടാതെ നിങ്ങളുടെ പ്രതീക്ഷിച്ച ചെലവ് കുറയ്ക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ബ്ലോക്കുകൾ സ്ഥാപിക്കുക റൂട്ടിംഗ് ചിലവിന്റെ ചില ലളിതമായ കണക്കുകൂട്ടലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതുവഴി നിങ്ങൾക്ക് 2 ആൾട്ടർനേറ്റ് പ്ലേസ്മെന്റ് പരിഹാരങ്ങൾ വിലയിരുത്താനും താരതമ്യം ചെയ്യാനും കഴിയും ഇത് മറ്റേതിനേക്കാൾ ചെലവേറിയതാണ് അതിനാൽ നിങ്ങൾ ഈ ഫൈൻ എടുക്കും FPGA സെമി കസ്റ്റം സ്റ്റാൻഡേർഡ് സെൽ അടിസ്ഥാനമാക്കിയുള്ള ചില ഡിസൈൻ ശൈലികൾക്കായി ഞാൻ പറഞ്ഞതുപോലെ ഫ്ലോർ പ്ലാനിംഗും പ്ലെയ്സ്മെന്റ് പ്രശ്നങ്ങളും സമാനമല്ല എന്നാൽ ഫുൾ കസ്റ്റമിനും അവ പ്രത്യേകം ചെയ്യേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സെൽ സെനാരിയോ ഒരിക്കൽ കൂടി നോക്കാം ഒരു സാധാരണ സെൽ ചിപ്പ് ഫ്ലോർപ്ലാൻ IO പിൻ ഉപയോഗിച്ച് ഇതുപോലെ കാണപ്പെടും ബൌണ്ടറികളിലെയും റോകളിലെയും IO സെല്ലുകൾ ഇടയിൽ റൂട്ടിംഗ് ചാനലുകളുള്ള ഈ സ്റ്റാൻഡേർഡ് സെല്ലുകളായിരിക്കും അതിനാൽ സാധാരണ പ്ലെയ്സ്മെന്റ് പ്രശ്നം ഇവിടെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സെൽ എങ്ങനെയാണ് ഒരു വരിയിൽ സ്ഥാപിക്കുക നിങ്ങൾ ഈ സെല്ലുകൾ സ്ഥാപിച്ചുകഴിഞ്ഞാൽ റൂട്ടിംഗ് ചാനലുകളുടെ വില നിങ്ങൾക്ക് കണക്കാക്കാം അതിനായി നിങ്ങൾക്ക് മതിയായ ഇടം നിലനിർത്താം സ്റ്റാൻഡേർഡ് സെല്ലിനായി നിങ്ങൾ കാണുകയാണെങ്കിൽ പ്രശ്നം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങളുടെ സ്ഥലം അൽപ്പം കുറവാണെന്ന് പിന്നീട് കണ്ടാൽ നിങ്ങൾക്ക് മുഴുവൻ വരിയും അൽപ്പം മുകളിലേക്കോ താഴേക്കോ നീക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാവുന്ന ക്രമീകരണങ്ങൾ പിന്നീട് ചെയ്യാവുന്നതാണ് എന്നാൽ പൊതുവായി പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ചുറ്റിക്കറങ്ങുന്ന നിരവധി ബ്ലോക്കുകളുള്ള ഫുൾ കസ്റ്റം തിങ്ങിൽ അത്ര എളുപ്പമല്ല ഇവിടെ ഇടം ഉണ്ടാക്കാൻ ഒരു ബ്ലോക്ക് നീക്കുന്നതിനാൽ മറുവശത്തെ ഇടം കുറച്ചേക്കാം അത് ഒരു പ്രശ്നം ശരിയാക്കാം അതിനാൽ ഇത് 1 വീണ്ടും ഇവിടെയുണ്ട് ഞാൻ 2 സ്റ്റാൻഡേർഡ് സെൽ പ്ലെയ്സ്മെന്റുകൾ കാണിച്ചുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇതിനെ ബാഡ് പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നു ഇതിനെ ഗുഡ് പ്ലെയ്സ്മെന്റുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ കണക്ഷനുകൾ എത്ര സങ്കീർണമാണെന്നറിയാൻ സ്ട്രൈറ് ലൈനിലൂടെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇന്റർകണക്ഷൻ അതിനാൽ ആദ്യ കേസിൽ നിങ്ങൾ ധാരാളം സിഗ്സാഗ് ലൈനുകൾ ഉണ്ടെന്ന് കാണുക എന്നാൽ രണ്ടാമത്തെ സാഹചര്യത്തിൽ റോ കൂടുതലും ചാനലുകളിൽ മാത്രമായി പ്രാദേശികമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ കുറച്ച് കണക്ഷനുകൾ മാത്രമേ ചാനലുകളിലുടനീളമുള്ളൂ അതിനാൽ ഇത് ഒരു ഗുഡ്പ്ലേസ്മെന്റാണ് അതിനാൽ പ്ലെയ്സ്മെന്റിന്റെ പ്രാധാന്യം വളരെ വ്യക്തമാണ് എനിക്ക് ഒരു ഗുഡ്പ്ലെയ്സ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നീട് റൂട്ടിംഗ് പ്രശ്നം വളരെ എളുപ്പമാകും കൂടാതെ എനിക്ക് ഒരു അന്തിമ രൂപകൽപ്പനയിൽ എത്തിച്ചേരാൻ വരാം അല്ലെങ്കിൽ എനിക്ക് കഴിയും അത് പ്രകടനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായിരിക്കും കാരണം ഇന്ന് സർക്യൂട്ടുകളുടെ മൊത്തം പ്രകടനത്തിൽ ഇന്റർകണക്ഷൻ ഏരിയയും ഇന്റർകണക്ഷൻ ഡിലയും ആധിപത്യം സ്ഥാപിക്കുന്നു അതിനാൽ എനിക്ക് എന്റെ ഇന്റർകണക്ഷൻ ലളിതവും ഹ്രസ്വവുമായി നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്നെ സഹായിക്കും നിങ്ങൾ ബ്ലോക്കുകൾ സ്ഥാപിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ റൂട്ടിംഗ് വരുന്നു ബ്ലോക്കുകൾ സ്ഥാപിച്ചുകഴിഞ്ഞാൽ നെറ്റ്ലിസ്റ്റുകൾക്കായുള്ള എല്ലാ കണക്ഷനും പൂർത്തിയാക്കുന്നതിന് നിങ്ങൾ ഇന്റർകണക്ഷൻ ലൈനുകൾ പ്രവർത്തിപ്പിക്കുന്നു ഇപ്പോൾ റൂട്ടിംഗിന്റെ വിവിധ വിഭാഗങ്ങളുണ്ട് ഗ്രിഡ് റൂട്ടിംഗ് ഗ്ലോബൽ റൂട്ടിംഗ് ഡീറ്റെയ്ൽഡ് റൂട്ടിംഗ് ക്ലോക്ക് ആൻഡ് പവർ റൂട്ടിംഗ് തുടങ്ങിയവ നമുക്ക് സംസാരിക്കാം

ബ്ലാക്ക് ബാഡ്പ്ലെയ്സ്മെന്റുകൾ ഞാൻ പറഞ്ഞതുപോലെ റൂട്ടിംഗ് പ്രശ്നത്തെ വളരെ ബുദ്ധിമുട്ടാക്കും ഗ്രിഡ് റൂട്ടിംഗ് എന്നാൽ ഗ്രിഡ് റൂട്ടിംഗ് എന്നാൽ ഇത് വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ് ഡയഗ്രാമാറ്റിക്കലായി കാണിക്കാം എന്ന് പറയട്ടെ എനിക്ക് ഒരു ലേഔട്ട് ഏരിയയുണ്ടെന്ന് പറയുക ഇതാണ് എന്റെ മൊത്തം സിലിക്കൺ ഫ്ലോർ എനിക്ക് ഇതിനകം തന്നെ ചില ബ്ലോക്കുകൾ ഉണ്ട് അതായത് ഇത് തടസ്സങ്ങളാണ് ഈ ബ്ലോക്കുകളിലൂടെ എനിക്ക് ഒരു ഇന്റർ കണക്ഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെ പറയട്ടെ എനിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് കരുതുക ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു പിൻ ഇവിടെ കണക്റ്റുചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ തടസ്സങ്ങൾ വരുമ്പോൾ ഈ റൂട്ടിംഗ് എങ്ങനെ പൂർത്തിയാക്കണമെന്ന് ഈ ഗ്രിഡ് റൂട്ടിംഗ് പറയുന്നത് സാധാരണ പ്രശ്നമായിരിക്കും അതിനാൽ നിരവധി ബദൽ വഴികളുണ്ട് അതിനാൽ ഇതൊരു ഇതര വഴിയാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഇപ്പോൾ പറയൂ എനിക്ക് അടുത്തതായി മറ്റൊരു പ്രശ്നമുണ്ട് പക്ഷേ ഒരു പിൻ ഉപയോഗിച്ച് ഇവിടെ ഒരു പിൻ ബന്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ വ്യക്തമായി നമ്മൾ ഈ റോ ഒരേ ലയേറിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരേ റൂട്ട് പിന്തുടരാനാകില്ല കാരണം ക്രോസ് ഉണ്ടാകും അതിനാൽ ഇവിടെ ഒരുപക്ഷേ ഇതുപോലുള്ള ഒരു വഴി എടുക്കേണ്ടിവരും അതിനാൽ ഇത് ഗ്രിഡ് റൂട്ടിംഗിന്റെ പ്രശ്നമാണ് തടസ്സങ്ങളുണ്ട് പോയിന്റുകളോ പിന്നുകളോ ബന്ധിപ്പിക്കേണ്ടതുണ്ട് കഴിയുന്നത്ര ഹ്രസ്വമായി അർത്ഥമാക്കുന്ന ഒരു പാത നിർണ്ണയിക്കാൻ ശ്രമിക്കുക അതുവഴി നിങ്ങൾക്ക് ഇന്റർ കണക്ഷൻശരിയായി പൂർത്തിയാക്കാൻ കഴിയും ഇതിന് പുറമേ ഗ്ലോബൽ റൂട്ടിംഗും ഡീറ്റെയ്ൽഡ് റൂട്ടിംഗ് പ്രോബ്ളവുമുണ്ട് അതിനാൽ എനിക്ക് ഇവിടെ ഒരു ഉദാഹരണം നൽകാൻ കഴിയും ഇവിടെ ചില പിൻ ലൊക്കേഷനുകളിൽ ബ്ലോക്കുകൾ ഉണ്ടെന്ന് കരുതുക അവ ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കപ്പെടണം രണ്ടാമത്തെ ഡയഗ്രം ഗ്ലോബൽ റൂട്ടിംഗിന്റെ ഫലം കാണിക്കുന്നു ഗ്ലോബൽ റൂട്ടിംഗ് അത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നില്ല എന്നതാണ് ഇത് കൃത്യമായ രീതിയിൽ പിൻസ് പരസ്പരം ബന്ധിപ്പിക്കുന്നില്ല മറിച്ച് ഒരു ഏകദേശ റൂട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നു ഈ 2 പിൻസ് ഈ ഭാഗത്ത് ബന്ധിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഈ 2 പിൻ ഈ ഭാഗം ഉപയോഗിക്കാം ഈ പിൻ ഈ ഭാഗം ഉപയോഗിക്കാം ഈ 2 പിൻസ് ബന്ധിപ്പിക്കാൻ എനിക്ക് ഈ ഭാഗം പിന്തുടരാം കാരണം മറ്റ് ബദലുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഈ കണക്ഷൻ എനിക്ക് ഇതുപോലൊരു പാത ഉപയോഗിക്കാമായിരുന്നു അതിനാൽ ഇത് ഏകദേശം ഭാഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇത് ഗ്ലോബൽ റൂട്ടിംഗാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ റൂട്ടിംഗ് പൂർത്തിയാക്കിയാൽ ഓരോ വ്യക്തിയുടെയും പ്രദേശങ്ങൾ ഓരോന്നായി നിങ്ങൾ 1 തവണ പരിഗണിക്കുകയും കൃത്യമായ വയറിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ആണ് അതിനാൽ ഇവിടെ ഞാൻ എല്ലാ വയറിങ്ങും ഒരേ ലയറിൽ കാണിക്കുന്നു പക്ഷേ ചാനൽ റൂട്ടിംഗിന്റെ ആ ഉദാഹരണം നമ്മൾ എടുത്തപ്പോൾ 2 വ്യത്യസ്ത ലയേറിൽ പ്രവർത്തിക്കുന്ന വാക്കുകൾ കാണിക്കാൻ ഞാൻ 2 വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചതായി ഓർക്കുന്നു ഒന്ന് ഹൊറിസോണ്ടൽ ഒന്ന് വെർട്ടിക്കൽ ആവശ്യമെങ്കിൽ ചില പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഇത് ഗ്ലോബൽ ആൻഡ് ഡീറ്റെയ്ൽഡ് റൂട്ടിംഗ് ആണ് അതിനാൽ പിന്നീട് നമ്മൾ ഇത് കൂടുതൽ വിശദമായി പരിശോധിക്കുകയും ധാരാളം ഉദാഹരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും ക്ലോക്ക്ഡ് റൂട്ടിംഗാണ് പ്രത്യേകിച്ചും പ്രധാനം ചിപ്പിലുടനീളം നിരവധി തുടർച്ചയായ സർക്യൂട്ട് എലെമെന്റുകൾ ഉളള ക്ലോക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് രജിസ്റ്ററുകൾ കൌണ്ടറുകൾ അവയ്ക്കെല്ലാം ക്ലോക്ക് ആവശ്യമാണ് സാധാരണയായി ക്ലോക്കുകൾ എഡ്ജ് ട്രിഗർ ചെയ്യുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ പലതും എഡ്ജുകളാൽ ട്രിഗർ ചെയ്യപ്പെടുന്നു മറ്റൊന്നിനേക്കാൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് സിഗ്നലിന്റെ വ്യത്യാസവും കാലതാമസവും ഉണ്ടെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മറ്റൊന്നിനേക്കാൾ നേരത്തെ സ്വിച്ച് ചെയ്തേക്കാം അതിനാൽ ഒരു സർക്യൂട്ടിൽ ഇത് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചേക്കാം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഒരുമിച്ച് മാറാൻ സാധ്യതയുണ്ടെങ്കിൽ മാറുന്നതിൽ കാലതാമസം നേരിടുന്നു അതിനാൽ നിർദ്ദേശിക്കപ്പെട്ട നിരവധി രീതികളുണ്ട് അവ ക്ലോക്ക് ചെയ്ത റൂട്ടിംഗ് കൈകാര്യം ചെയ്യാൻ നമ്മൾ ചർച്ച ചെയ്യും ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു രീതി പോലെ ഇതിനെ H ട്രീ എന്ന് വിളിക്കുന്നു കാരണം ഓരോ ഇന്റർമീഡിയറ്റ് ഘട്ടങ്ങളും H പോലെ കാണപ്പെടുന്നു അതിനാൽ ക്ലോക്ക് നടുവിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് H ന്റെ ടെർമിനലുകളിലെ ഈ പോയിന്റുകളെല്ലാം ക്ലോക്ക് സിഗ്നലുകൾ എടുക്കുന്ന പോയിന്റുകളാണ് ഇപ്പോൾ നിങ്ങൾ ക്ലോക്ക് ജനറേറ്ററിൽ നിന്ന് ഓരോ ടെർമിനൽ പോയിന്റും വരെ അളക്കുകയാണെങ്കിൽ ഇന്റർ കണക്ഷന്റെ ദൈർഘ്യം ഒന്നുതന്നെയാണ് അതായത് ക്ലോക്കുകളുടെ കാലതാമസം ഈ ഓരോ പോയിന്റിലും സമാനമായിരിക്കും എന്നാൽ ഈ രീതിയിലെ കുഴപ്പം സാധാരണമാണ് നിങ്ങൾക്ക് ക്ലോക്ക് ലൊക്കേഷൻ പതിവായി ക്രമീകരിച്ചിട്ടില്ലാത്ത ലേ ഔട്ടുകൾ അവ പതിവായി യാദൃച്ഛികവും ക്രമരഹിതവുമായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും ഈ എച്ച് ടൈപ്പ് ലേ ഔട്ടുകൾ വളരെ ഭംഗിയായി ലേ ഔട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കാറില്ല അതിനാൽ ഇതെല്ലാം നമുക്ക് പിന്നീട് അടുത്ത പ്രഭാഷണങ്ങളിൽ കാണാം അതിനാൽ ഈ പ്രഭാഷണം ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം